ഈ പ്രഭാഷണത്തിൽ രേഖീയ സമവാക്യത്തിനുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും മുമ്പത്തെ പ്രഭാഷണത്തിൽ കണ്ടതുപോലെ ഡാറ്റാ സയൻസിൽ മാട്രിക്സ് സിദ്ധാന്തത്തിന്റെയും ലീനിയർ ആൾജിബ്രയുടെയും പ്രാധാന്യം ഞങ്ങൾ സ്ഥാപിച്ചു മെട്രിക്സുകൾ ഉപയോഗിച്ചുള്ള ഡാറ്റാ അവതരണവും ഡാറ്റയുടെ മാട്രിക്സിൽ നിന്നുമുള്ള ഡാറ്റ അവതരണമാണ് ഞങ്ങൾ മുമ്പ് പരിരക്ഷിച്ച ആശയങ്ങൾ വേരിയബിളുകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾക്കിടയിൽ എന്തെങ്കിലും രേഖീയ ബന്ധങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞങ്ങൾ കണ്ടു ശൂന്യമായ ഇടം എന്ന ആശയം ഉപയോഗിച്ച് ഈ രേഖീയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു ഈ പ്രഭാഷണത്തിൽ ഡാറ്റാ സയൻസിന്റെ ഏറ്റവും അടിസ്ഥാന വശമായ മാട്രിക്സ് സമവാക്യങ്ങൾക്കായി പരിഹാരങ്ങൾ എക് സ് ട്രാക്റ്റുചെയ്യുന്നതിനുള്ള അടുത്ത പ്രധാന വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അവിടെ ഞങ്ങൾക്ക് നിരവധി സമവാക്യങ്ങൾ ഉണ്ടായിരിക്കാം ആ സമവാക്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടി വന്നേക്കാം അതിനാൽ മാട്രിക്സ് സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ നോക്കും പൊതുവേ ഞങ്ങൾക്ക് ഒരു കൂട്ടം ലീനിയർ സമവാക്യങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങൾ അത് മാട്രിക്സ് രൂപത്തിൽ എഴുതുമ്പോൾ ഞങ്ങൾ ഇത് ആക്സ് b രൂപത്തിൽ എഴുതുന്നു അവിടെ എ സാധാരണയായി n അനുസരിച്ച് വലുപ്പത്തിന്റെ മാട്രിക്സ് ആണ് അവസാന ക്ലാസ് മീറ്ററിൽ ഞങ്ങൾ കണ്ടതുപോലെ വരികളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുകയും n നിരകളുടെ എണ്ണത്തെയും മാട്രിക്സ് ഗുണനം പ്രവർത്തിക്കുന്നതിനും പ്രതിനിധീകരിക്കും x 1 മുതൽ n വലുപ്പമുള്ളതായിരിക്കണം ബി 1 വരെ വലുപ്പമുള്ളതായിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യത്തിന്റെ ഓരോ വരിയും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടത് കൈ വശവും വലതു കൈ വശവും ഉണ്ടാകും ഇടത് വശത്ത് എ യുടെ ആദ്യ വരി x ഉപയോഗിച്ച് ഗുണിക്കുന്നതിനോട് അനുബന്ധമായ നിബന്ധനകളും വലതു കൈ ഭാഗത്തിന് ബി യുമായി ബന്ധപ്പെട്ട പദം ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യ വരി എടുക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ സമവാക്യമായിരിക്കും അതിനാൽ ആ വീക്ഷണകോണിൽ നിന്ന് സമവാക്യങ്ങളുടെ സിസ്റ്റത്തിലെ സമവാക്യങ്ങളുടെ എണ്ണത്തെ m പ്രതിനിധീകരിക്കുന്നു ഒപ്പം വേരിയബിളുകളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നു പൊതുവേ ബി എന്നത് വലതുഭാഗത്ത് ഉപയോഗിക്കുന്ന സ്ഥിരമായ മാട്രിക്സാണ് അതിനാൽ ഞങ്ങൾ ആക്സ് b എഴുതുമ്പോൾ ഇത് n വേരിയബിളുകളിലെ ഒരു കൂട്ടം m സമവാക്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ വ്യക്തമായി m n ആയിരിക്കുമ്പോൾ ഒരാൾ അഭിസംബോധന ചെയ്യേണ്ട മൂന്ന് കേസുകളുണ്ട് അതിനർത്ഥം സമവാക്യങ്ങളുടെയും വേരിയബിളുകളുടെയും എണ്ണം ഒന്നുതന്നെയാണ് അതിനാൽ ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള കേസായി മാറുന്നു M n നേക്കാൾ വലുതാകുമ്പോൾ അതിനർത്ഥം വേരിയബിളുകളേക്കാൾ കൂടുതൽ സമവാക്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് അതിനാൽ എല്ലാ സമവാക്യങ്ങളും നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് മതിയായ വേരിയബിളുകൾ ഇല്ലായിരിക്കാം സാധാരണ സാഹചര്യത്തിൽ ഇത് m n ൽ കുറവായിരിക്കുമ്പോൾ ഒരു പരിഹാരത്തിനും ഇടയാക്കില്ല സമവാക്യങ്ങളുടെ എണ്ണം വേരിയബിളുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് തന്നിരിക്കുന്ന സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വേരിയബിളുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നതാണ് അതിനാൽ ഒരു പൊതു സാഹചര്യത്തിൽ ഇത് സാധാരണയായി ഒന്നിലധികം പരിഹാരങ്ങളിലേക്ക് നയിക്കും അതിനാൽ രണ്ടാമത്തെ കേസ് പരിഹരിക്കാൻ ഏറ്റവും എളുപ്പമാണ് ആദ്യ കേസ് സാധാരണയായി പരിഹാരമില്ല മൂന്നാമത്തെ കേസിന് ഒന്നിലധികം പരിഹാരങ്ങളുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഈ കേസുകൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ പോവുകയാണോ തുടർന്ന് അവയെല്ലാം കപട വിപരീത ആശയം ഉപയോഗിച്ച് സംയോജിപ്പിക്കുക എന്നതാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ റാങ്ക് എന്ന ആശയം ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തിരുന്നു പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം കാരണം സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗപ്രദമാകും നിങ്ങൾക്ക് ഒരു മാട്രിക്സ് ഒരു എം ഉപയോഗിച്ച് പരിഗണിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ മാട്രിക്സിന്റെ എല്ലാ വരികളും രേഖീയമായി സ്വതന്ത്രമാണെങ്കിൽ വരികൾ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞത് ഓർക്കുക അതിനാൽ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഡാറ്റാ സാമ്പിൾ ഒരു രേഖീയ ബന്ധം അവതരിപ്പിക്കുന്നില്ല എന്നാണ് അതാണ് സാമ്പിളുകൾ പരസ്പരം സ്വതന്ത്രമാണ് ഇപ്പോൾ മാട്രിക്സിന്റെ എല്ലാ നിരകളും രേഖീയമായി സ്വതന്ത്രമാകുമ്പോൾ അടിസ്ഥാനപരമായി വേരിയബിളുകൾ രേഖീയമായി സ്വതന്ത്രമാണെന്നാണ് അർത്ഥമാക്കുന്നത് കാരണം നിരകൾ വേരിയബിളിനെ പ്രതിനിധീകരിക്കുന്നു ഒരു പൊതു സാഹചര്യത്തിൽ എനിക്ക് n അനുസരിച്ച് ഒരു മാട്രിക്സ് m ഉണ്ടെങ്കിൽ m n നേക്കാൾ ചെറുതാണെങ്കിൽ മാട്രിക്സിന്റെ പരമാവധി റാങ്ക് m മാത്രമായിരിക്കും അതിനാൽ പരമാവധി റാങ്ക് രണ്ട് നമ്പറുകളിൽ കുറവായിരിക്കാം അതിനാൽ എനിക്ക് ഒരു മാട്രിക്സ് എം ഉള്ള സന്ദർഭങ്ങളിൽ n m നേക്കാൾ ചെറുതാണ് തുടർന്ന് സാധ്യമായ പരമാവധി റാങ്ക് n ആണ് പൊതുവേ മാട്രിക്സിന്റെ വലുപ്പം എന്തായാലും വരി റാങ്ക് നിര റാങ്ക് എന്ന് സ്ഥാപിക്കപ്പെട്ടു അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു വരി റാങ്കും നിര റാങ്കും ഉണ്ടാകരുത് അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് മാട്രിക്സിന്റെ വലുപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു നിശ്ചിത എണ്ണം സ്വതന്ത്ര വരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരവധി സ്വതന്ത്ര നിരകൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഇത് മനസ്സിൽ പിടിക്കേണ്ട പ്രധാന കാര്യമാണ് ഇപ്പോൾ m n ന്റെ കാര്യം നോക്കാം ഞങ്ങൾക്ക് ഒരേ എണ്ണം സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ട് എ പൂർണ്ണ റാങ്കാണെങ്കിൽ പൂർണ്ണ റാങ്ക് എന്താണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരേ എണ്ണം സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ട് m n അതിനാൽ മാട്രിക്സിന്റെ പരമാവധി റാങ്കിന്റെ റാങ്ക് m അല്ലെങ്കിൽ n ആകാം കാരണം രണ്ടും ഒന്നുതന്നെയാണ് ഇപ്പോൾ മാട്രിക്സിന്റെ റാങ്ക് m ആയി മാറുകയാണെങ്കിൽ അതിനെ പൂർണ്ണ റാങ്ക് മാട്രിക്സ് എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് ഇടത് വശത്തുള്ള ഈ സമവാക്യങ്ങളെല്ലാം പരസ്പരം സ്വതന്ത്രമാണെന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇടത് വശത്ത് മറ്റ് സമവാക്യങ്ങളുടെ രേഖീയ സംയോജനമായി നിങ്ങൾക്ക് ഒരിക്കലും ഇടത് വശത്ത് ഒരു സമവാക്യവും ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ ആക്സ് b പ്രശ്നത്തിന് ഒരു അദ്വിതീയ പരിഹാരമുണ്ട് കൂടാതെ അതുല്യമായ പരിഹാരം x ഒരു വിപരീത ബി ആണ് ഇപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂളിൽ നിന്ന് അങ്ങനെ തന്നെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ എ 1 കണക്കുകൂട്ടാൻ കഴിയുമെന്ന് നിങ്ങൾ പഠിക്കുമായിരുന്നു അതിനാൽ ഒരാൾക്ക് x A 1 p ഈ പ്രശ്നത്തിന് പരിഹാരമായി കണക്കുകൂട്ടാൻ കഴിയും എ മുഴുവൻ സമയമല്ലാത്തപ്പോൾ മാത്രമേ ബുദ്ധിമുട്ട് ഉണ്ടാകൂ അതിനർത്ഥം മാട്രിക്സിന്റെ റാങ്ക് n നേക്കാൾ കുറവാണ് ഈ സാഹചര്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ആക്സ് b എന്ന സമവാക്യത്തിന്റെ ഇടത് വശത്ത് എടുത്ത് A യുടെ ചില വരികളുടെ ചില രേഖീയ കോമ്പിനേഷനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ എ യുടെ വരികളിലൊന്നെങ്കിലും എ യുടെ മറ്റ് വരികളുടെ രേഖീയ സംയോജനമായിരിക്കും മാട്രിക്സിന്റെ റാങ്ക് മീറ്ററിൽ താഴെയാകാൻ കാരണം അതാണ് ഈ സാഹചര്യത്തിൽ മൂല്യങ്ങൾ വലതുവശത്ത് എന്താണെന്നത് അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകാം ഒരു സാഹചര്യം സ്ഥിരമായ ഒരു സാഹചര്യമായി ഞങ്ങൾ വിളിക്കാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥിരമായ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പിന്നീടുള്ള സ്ലൈഡുകളിൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് വിശദീകരിക്കും തുടർന്ന് നിങ്ങൾക്ക് അനന്തമായ പരിഹാരങ്ങൾ ലഭിക്കും A x b ന് നിരവധി പരിഹാരങ്ങൾ ഉണ്ടാകാം സമവാക്യങ്ങളുടെ സംവിധാനം പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല അതിനാൽ m തുല്യമാകുമ്പോൾ ചുരുക്കത്തിൽ ഇതിനെ a എന്ന് വിളിക്കുന്നു സ്ക്വയർ മാട്രിക്സ് മാട്രിക്സ് പൂർണ്ണ റാങ്ക് ഡിറ്റർമിനന്റ് എ അല്ല 0 ആണെങ്കിൽ ഒരു അദ്വിതീയ പരിഹാരമുണ്ട് x A 1 b എ പൂർണ്ണ റാങ്കില്ലാത്തപ്പോൾ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് സ്ഥിരമായ ഒരു സാഹചര്യമായി ഞങ്ങൾ വിളിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് അനന്തമായ പരിഹാരങ്ങൾ ഉണ്ടായിരിക്കാം മറ്റൊന്ന് നമുക്ക് പരിഹാരമില്ലാത്ത പൊരുത്തമില്ലാത്ത സാഹചര്യം എന്ന് വിളിക്കുന്നു സ്ക്രീനിന്റെ മുകളിൽ ഉള്ള ഒരു ലളിതമായ ഉദാഹരണം എ x b രൂപത്തിലുള്ള മാട്രിക്സ് ഈ സാഹചര്യത്തിൽ മാട്രിക്സ് എ 1 3 2 4 x x x1 x2 7 10 ആണ് അതിനാൽ x1 x 2 എന്നീ രണ്ട് വേരിയബിളുകളിൽ രണ്ട് സമവാക്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ആദ്യ സമവാക്യം അടിസ്ഥാനപരമായി x1 3x2 7 ആണ് രണ്ടാമത്തെ സമവാക്യം 2x1 4x2 10 ആണ് ഇത് പൂർണ്ണ റാങ്കാണെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നിങ്ങൾ എടുക്കുന്ന ആദ്യ നിരയുടെ ഗുണിതങ്ങൾ എന്തുതന്നെയായാലും നിങ്ങൾക്ക് ഒരിക്കലും രണ്ടാമത്തെ നിരയെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ആദ്യ വരിയിൽ ഒന്നിലധികം നിങ്ങൾക്ക് ഒരിക്കലും രണ്ടാമത്തെ വരിയെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല എ യുടെ നിർണ്ണായകന് 0 അല്ല എന്ന വസ്തുതയിലും ഇത് കാണാം നിങ്ങളുടെ ഹൈസ്കൂളിൽ നിന്ന് ഈ കേസിൽ നിർണ്ണായകൻ 4 തവണ 1 2 തവണ 3 ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് 0 അല്ല അതിനാൽ എ റാങ്ക് 2 ആണ് അതിനാൽ മാട്രിക്സ് വലുപ്പം 2 മുതൽ 2 വരെ ആണെന്നും റാങ്ക് 2 ആണെന്നും ഞങ്ങൾക്ക് പരമാവധി റാങ്ക് ഉണ്ട് അതിനാൽ മാട്രിക്സ് പൂർണ്ണ റാങ്കാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു x1 x2 ഒരു വിപരീത ബി എന്ന് എഴുതാൻ കഴിയുമെന്ന് ഞങ്ങൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു അതിനാൽ ഇതാണ് വിപരീത മാട്രിക്സ് 1 3 2 4 ഈ വിപരീത ബി നിങ്ങൾക്ക് ഒരു വിപരീത കണക്കുകൂട്ടൽ നടത്താനും തുടർന്ന് പരിഹാരം 1 2 ആയി കണക്കാക്കാനും ഞങ്ങൾ പരിഹാരം സമവാക്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ 1 തവണ 2 1 തവണ 1 3 തവണ 2 7 ഉം 2 മടങ്ങ് 1 ഉം 4 തവണ 2 10 ഉം കാണാം അതിനാൽ പരിഹാരം 1 2 ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനായി ഒരു r കോഡ് എഴുതണമെങ്കിൽ ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ഒരു മാട്രിക്സ് എഴുതുന്നു അക്കങ്ങൾ സി ആയി ഇടുക തുടർന്ന് നിരകളുടെ എണ്ണം നിർവചിക്കുക നിങ്ങൾ b എന്താണെന്ന് നിങ്ങൾ ഡെ നെ തുടർന്ന് കമാൻഡ് പരിഹാരം ഉപയോഗിക്കുക പരിഹാരം ലഭിക്കാൻ x ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ പരിഹാരം 1 2 ആണ് അതിനാൽ ഇത് പൂർണ്ണ റാങ്കിന്റെ ഒരു കേസാണ് അവിടെ എനിക്ക് ഒരു അദ്വിതീയ പരിഹാരം ലഭിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ രണ്ട് സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്താൻ മറ്റൊരു പരിഹാരത്തിനും കഴിയില്ല എന്നതാണ് വരികളോ നിരകളോ രേഖീയമായി ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമാക്കുന്നതിന് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം അതിനാൽ മറ്റൊരു കൂട്ടം സമവാക്യങ്ങൾ ഇതാ ഈ സമവാക്യങ്ങൾ x1 2x2 5 2x1 4x2 10 ആയി വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാട്രിക്സ് എ വഴി നിങ്ങൾ അത് കാണും ഞാൻ ആദ്യ നിരയെ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് രണ്ടാമത്തെ നിര ലഭിക്കും അതിനാൽ രണ്ടാമത്തെ നിര ആദ്യ നിരയെ രേഖീയമായി ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യ നിര രണ്ടാമത്തെ നിരയെ രേഖീയമായി ആശ്രയിച്ചിരിക്കുന്നു ഏത് വഴിയാണ് നിങ്ങൾ അത് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ ഉദാഹരണത്തിന് വിഭജിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വരി 2 കൊണ്ട് നിങ്ങൾക്ക് ആദ്യ വരി ലഭിക്കും അല്ലെങ്കിൽ ആദ്യ വരി 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വരി ലഭിക്കും അതിനാൽ വരികളും രേഖീയമായി ആശ്രയിച്ചിരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര നിര മാത്രമേയുള്ളൂ അതിനർത്ഥം രേഖീയമായി സ്വതന്ത്രമായ ഒരു വരി മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഈ രേഖീയ ആശ്രിതത്വം പരിശോധിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ഈ മാട്രിക്സിന്റെ നിർണ്ണായകത കണക്കാക്കുക എന്നതാണ് ഈ മാട്രിക്സിന്റെ നിർണ്ണായകത ഞങ്ങൾ കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് 1 തവണ 4 2 തവണ 2 ലഭിക്കും അത് 4 4 ആണ് അത് 0 ആണ് അതിനാൽ ഇവിടെ രേഖീയ ആശ്രയത്വം ഉണ്ടെന്നും ഡിറ്റർമിനന്റ് പറയുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് റാങ്ക് 1 ഉം നിരകളുടെ എണ്ണം 2 ഉം ആയിരിക്കുമ്പോൾ അസാധുവായി 1 ആണെന്ന് നമുക്കറിയാം അതിനാൽ ശൂന്യമായ സ്ഥലത്ത് ഒരു വെക്റ്റർ ഉണ്ട് ആദ്യ സമവാക്യത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ സമവാക്യങ്ങൾ എഴുതുമ്പോൾ സമവാക്യങ്ങൾ നോക്കാം x1 2x2 5 രണ്ടാമത്തെ സമവാക്യം 2x1 4 4x2 10 ആണ് എ വരികളുടെ രേഖീയ ആശ്രയത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഇടത് വശത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഒരിക്കലും വലതു കൈ വശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പോൾ ഇടത് കൈഭാഗം രേഖീയമായി ആശ്രയിക്കപ്പെടുമ്പോഴെല്ലാം ഒരേ രേഖീയ ആശ്രിതത്വം വലതുഭാഗത്ത് നിലനിർത്തുകയാണെങ്കിൽ സ്ഥിരമായ സമവാക്യങ്ങളുടെ അവസ്ഥ നമുക്കുണ്ട് അതിനാൽ നിങ്ങൾ ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇടത് കൈ വശത്തെ ഞങ്ങൾക്കറിയാം ഞാൻ ആദ്യ സമവാക്യം എടുത്ത് 2 കൊണ്ട് ഗുണിച്ചാൽ ഇടത് വശത്ത് രണ്ടാമത്തെ സമവാക്യം ലഭിക്കും അതിനാൽ x1 2x2 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 2x1 4x2 നൽകുന്നു ഇപ്പോൾ ഒരേ രേഖീയ ആശ്രിതത്വം വലതുഭാഗത്ത് നിലനിർത്തുകയാണെങ്കിൽ അതായത് ഞാൻ ആദ്യ നമ്പർ 5 എടുത്ത് 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് ഈ നമ്പർ ലഭിക്കണം ഈ സാഹചര്യത്തിൽ ഈ നമ്പർ ലഭിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഈ ഉദാഹരണം നിർമ്മിച്ചു ഇപ്പോൾ ഇടത് കൈ രേഖീയമായി ആശ്രയിക്കുക മാത്രമല്ല അതേ രേഖീയ ആശ്രയത്വവും വലതുഭാഗത്ത് നിലനിർത്തുകയും ചെയ്യുന്നു അതിനാൽ മൊത്തത്തിൽ സമവാക്യങ്ങൾ സ്ഥിരത പുലർത്തുന്നു പക്ഷേ രേഖീയമായി പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഈ സമവാക്യം പരിഹരിച്ചാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നു ഈ സമവാക്യം എനിക്ക് പരിഹരിക്കേണ്ടതില്ല കാരണം ഞാൻ ഇത് 2 കൊണ്ട് ഗുണിക്കുന്നു എനിക്ക് ഈ സമവാക്യം ലഭിക്കുന്നു അതിനാൽ 1 x2 എന്നിവ ഈ സമവാക്യം പരിഹരിക്കുന്നതെന്തും രണ്ടാമത്തെ സമവാക്യവും പരിഹരിക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളിലൊന്ന് എനിക്ക് ഉപേക്ഷിക്കാം ഈ സമവാക്യം ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ എനിക്ക് x1 2x2 5 അവശേഷിക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് രണ്ട് വേരിയബിളുകളിൽ ഒരു സമവാക്യം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക അടിസ്ഥാനപരമായി എനിക്ക് ഒരു സ variable ജന്യ വേരിയബിൾ ഉണ്ടെന്ന് എന്നോട് പറയുന്നു അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ഈ സമവാക്യം എടുക്കുകയാണെങ്കിൽ x1 2x2 5 ഞാൻ x2 0 സജ്ജമാക്കുകയാണെങ്കിൽ എനിക്ക് x1 5 ലഭിക്കും ഞാൻ x2 1 പറഞ്ഞാൽ എനിക്ക് x1 3 തുടങ്ങിയവ ലഭിക്കും അതിനാൽ ഇവയെല്ലാം ഈ സമവാക്യങ്ങൾക്ക് പരിഹാരങ്ങളാണ് ഞാൻ രണ്ട് ചൂണ്ടിക്കാണിക്കുന്നു എനിക്ക് x2 ന് എന്തെങ്കിലും മൂല്യം എടുക്കാമെന്നും തുടർന്ന് ഒരു x1 കണക്കാക്കാമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അത് ഈ സമവാക്യം തൃപ്തിപ്പെടുത്തും എനിക്ക് x2 ന് എന്തെങ്കിലും മൂല്യം എടുക്കാൻ കഴിയുമെന്നതിനാൽ ഈ അനന്തമായ ചോയിസുകളുമായി പൊരുത്തപ്പെടുന്ന x2 നായി അനന്തമായ ചോയ് സുകൾ ഉണ്ട് എനിക്ക് x1 ന്റെ മൂല്യം ലഭിക്കും അതിനാൽ ഈ ജോഡി ഈ സമവാക്യങ്ങൾക്ക് പരിഹാരമാകും അതിനാൽ ഈ എ പൂർണ്ണ റാങ്കിനേക്കാൾ കുറവാകുമ്പോൾ സമവാക്യങ്ങൾ സ്ഥിരത പുലർത്തുന്നുവെങ്കിൽ അവയ്ക്ക് അനന്തമായ നിരവധി പരിഹാരങ്ങൾ ലഭിക്കും പൊരുത്തമില്ലാത്ത സമവാക്യങ്ങളുടെ ആശയം വിശദീകരിക്കാൻ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ഈ ഉദാഹരണം ഇവിടെ നോക്കാം ഒരു മാറ്റം ഒഴികെ മുമ്പത്തെ കേസിന്റെ അതേ ഉദാഹരണമാണിത് ഈ നമ്പർ 10 ൽ നിന്ന് 9 ആയി മാറ്റി മുമ്പത്തെ സാഹചര്യത്തിൽ ആദ്യത്തെ സമവാക്യം ഞാൻ ഗുണിച്ചാൽ ഇടത് കൈ വശമാണെന്ന് ഞങ്ങൾ കണ്ടു 2 എനിക്ക് രണ്ടാമത്തെ സമവാക്യം ലഭിക്കുന്നു മുമ്പത്തെ ഉദാഹരണത്തിൽ ഈ സംഖ്യ 10 ആയിരുന്നു ഞാൻ 5 കൊണ്ട് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 10 ലഭിക്കുന്നു അതിനാൽ രണ്ട് സമവാക്യങ്ങളും സ്ഥിരതയാർന്നതും എനിക്ക് ഒരു സമവാക്യം ഉപേക്ഷിക്കാനും കഴിയും എന്നിരുന്നാലും ഈ നമ്പർ 10 ഒഴികെയുള്ള ഒന്നാണെങ്കിൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് ഇടത് കൈ വശം രേഖീയമായി ആശ്രയിക്കുമെങ്കിലും രണ്ടാമത്തെ സമവാക്യം ആദ്യ സമവാക്യത്തിന്റെ ഇരട്ടി ആയിരിക്കും വലതു കൈ എല്ലായ്പ്പോഴും പൊരുത്തപ്പെടുന്നില്ല ഈ നമ്പർ ഇല്ലെങ്കിൽ അടിസ്ഥാനപരമായി ആദ്യത്തെ സമവാക്യം പരിഹരിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന x1 x2 മൂല്യങ്ങൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ ആ മൂല്യം രണ്ടാമത്തെ സമവാക്യത്തിലേക്ക് പ്ലഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വലതു കൈ എല്ലായ്പ്പോഴും 10 ആയിരിക്കും പക്ഷേ ഇത് 9 ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരിക്കലും സാധ്യമല്ല അതിനാൽ നിങ്ങൾക്ക് പരിഹാരമില്ലാത്ത ഒരു കേസാണിത് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ നമ്പർ 10 ഒഴികെയുള്ള ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമവാക്യങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല ഇത് പൊരുത്തമില്ലാത്ത കേസായി മാറും മാട്രിക്സിന്റെ റാങ്ക് പൂർണ്ണ റാങ്കിനേക്കാൾ കുറവായിരിക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ വീണ്ടും പൊരുത്തപ്പെടാത്ത കേസ് സാധ്യമാകൂ ഇടത് വശത്തെ രേഖീയമായി ആശ്രയിക്കുന്ന ചില വരികളുണ്ട് അത് നിങ്ങൾക്ക് 1 തവണ 4 2 തവണ 2 എന്ന അതേ നിർണ്ണായകത്തിലൂടെ വീണ്ടും പരിശോധിക്കാൻ കഴിയും രണ്ടാമത്തെ വരി പൊരുത്തമില്ലാത്തതിനാൽ ഈ സമവാക്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല കൂടാതെ A x b ന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല അതിനാൽ സമവാക്യങ്ങളുടെയും വേരിയബിളുകളുടെയും എണ്ണം ഒന്നുതന്നെയാണെങ്കിൽ അത് പൂർത്തിയാക്കുന്നു അതിനാൽ ഇതുവരെ ഞങ്ങൾ കേസ് കണ്ടു അവിടെ m n ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം അവിടെ m n നേക്കാൾ വലുതാണ് M n നേക്കാൾ വലുതായതിനാൽ അടിസ്ഥാനപരമായി എനിക്ക് വേരിയബിളുകളേക്കാൾ കൂടുതൽ സമവാക്യങ്ങൾ ഉണ്ടെന്നാണ് ഇതിനർത്ഥം അതിനാൽ എല്ലാ സമവാക്യങ്ങളും പരിഹരിക്കുന്നതിന് മതിയായ വേരിയബിളുകളോ ആട്രിബ്യൂട്ടുകളോ ഇല്ല സമവാക്യങ്ങളുടെ എണ്ണം പൊതുവെ വേരിയബിളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായതിനാൽ എല്ലാ സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനാൽ ഞങ്ങൾ ഇതിനെ ഒരു പരിഹാര കേസായി കണക്കാക്കി എന്നിരുന്നാലും അർത്ഥമുള്ളതും മൂന്ന് കേസുകൾക്കും പൊതുവൽക്കരിക്കാൻ കഴിയുന്നതുമായ ചില പരിഹാരങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ കേസ് ഒപ്റ്റിമൈസേഷൻ വീക്ഷണകോണിൽ നിന്ന് കണ്ടുകൊണ്ട് ഉചിതമായ ഒരു പരിഹാരം ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു അത് നിലവിൽ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നു സമവാക്യങ്ങളുടെ എണ്ണം വേരിയബിളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുമ്പോൾ നമുക്ക് ആക്സ് b നുള്ള ഒരു പരിഹാരം നോക്കാം ഞങ്ങൾ ഇവിടെ ഒപ്റ്റിമൈസേഷൻ വീക്ഷണം സ്വീകരിക്കാൻ പോകുന്നതിനുമുമ്പ് സൂചിപ്പിച്ചതുപോലെ ആക്സ് b പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമവാക്യം A x b സമവാക്യങ്ങളുടെ ഗണത്തിന് തികഞ്ഞ പരിഹാരമുണ്ടെങ്കിൽ ആക്സ് ബി 0 ആയിരിക്കും എന്നിരുന്നാലും സമവാക്യങ്ങളുടെ എണ്ണം വേരിയബിളുകളുടെ എണ്ണത്തേക്കാൾ വളരെയധികം കൂടുതലാണെന്ന് നമുക്കറിയാമെന്നതിനാൽ ഒരു തികഞ്ഞ പരിഹാരം ഉണ്ടാകില്ല അതിനാൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആക്സ് ബി കുറയ്ക്കുന്ന തരത്തിൽ ഒരു പരിഹാരം തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആക്സ് ബി ഒരു വെക്റ്ററാണെന്നും ആ വെക്റ്ററിൽ ഓരോ തവണയും എടുക്കുകയാണെങ്കിൽ ആ നിബന്ധനകളെ ഓരോ സമവാക്യത്തിലെ പിശകായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും അതിനാൽ എനിക്ക് ഒരു 11x1 a12x2 b1 a21x1 a22x2 b2 a31x1 a32x2 b3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകുക ഇപ്പോൾ എനിക്ക് തികഞ്ഞ പരിഹാരം x1 x2 ഉണ്ടെങ്കിൽ അത് മൂന്ന് സമവാക്യങ്ങളും നിറവേറ്റും എന്നിട്ട് ഞാൻ ഇത് a1x1 a12x2 b1 ആയി എഴുതുമ്പോൾ ഇത് 0 ആയിരിക്കും എന്നിരുന്നാലും എനിക്ക് ഒരു തികഞ്ഞ പരിഹാരം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഞാൻ ഇതിനെ ഒരു പിശകായി വിളിക്കാം ഈ സമവാക്യത്തിൽ ഞാൻ ഒരു പിശക് അനുവദിക്കുന്നു ഈ സമവാക്യത്തിൽ എനിക്ക് പിശകുണ്ട് അതിനാൽ മൂന്ന് പിശകുകളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു സമവാക്യങ്ങൾ ഉള്ളതുപോലെ നിരവധി പിശകുകൾ അതിനാൽ ഈ പിശകുകളെല്ലാം ഞങ്ങൾ എങ്ങനെ കൂട്ടായി കുറയ്ക്കും ഇവ രണ്ടും ഉടനടി ചിന്തിക്കേണ്ട ഒരു കാര്യം e1 e2 e3 കുറയ്ക്കുക എന്നതാണ് പക്ഷേ അത് ഒരു നല്ല ആശയമായിരിക്കില്ല കാരണം നെഗറ്റീവ് ദിശയിലെ വളരെ വലിയ പിശകായി ₁ പോസിറ്റീവ് ദിശ e2 ൽ എനിക്ക് വളരെ വലിയ പിശകുണ്ടാകാം കൂടാതെ 0 ആയി e3 ഇപ്പോഴും എനിക്ക് ഒരു നൽകും ഉത്തരം 0 അതിനാൽ അത് ഒരു നല്ല ഉത്തരമല്ല ഇത് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം സ്ക്വയറുകളുടെ പിശകുകളുടെ ആകെത്തുകയായി ഞങ്ങൾ വിളിക്കുന്നത് കുറച്ചുകൊണ്ട് അവയെല്ലാം കൂട്ടായി കുറയ്ക്കുക എന്നതാണ് അതിനാൽ e1 e2 e3 കുറയ്ക്കുന്നതിനുപകരം നിങ്ങൾ ഈ ഉദാഹരണം എടുക്കുന്നു നിങ്ങൾ e12 e22 e32 കുറയ്ക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ E1 e2 e3 പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നത് പരിഗണിക്കാതെ തന്നെ 0 ൽ നിന്ന് അകലെയായിരിക്കുന്നിടത്തോളം പിശക് പദത്തിനുള്ള സംഭാവന ഉയർന്നതായിരിക്കും അതിനാൽ നിങ്ങൾ പൂജ്യത്തിൽ നിന്ന് വളരെ അകലെയല്ലെന്ന് ഇത് യാന്ത്രികമായി ഉറപ്പാക്കും ഇപ്പോൾ e12 എന്നതിനുപകരം നിങ്ങൾക്ക് കുറയ്ക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സ്ക്വയറുകളുടെ പരിഹാരമാണിത് നിങ്ങൾക്ക് മോഡുലസ് e1 mod e2 mod e3 കുറയ് ക്കാൻ കഴിയും കാരണം മോഡ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് അതും സാധ്യമാണ് പക്ഷേ പൊതുവേ ഞങ്ങൾ കുറഞ്ഞത് ചതുര പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അവിടെ പിശകുകളുടെ ഈ ആകെത്തുക ഞങ്ങൾ കുറയ്ക്കുന്നു ഇപ്പോൾ ഇത് ആക്സ് കുറയ്ക്കുന്നതിന് തുല്യമാണ് ബി ട്രാൻസ്പോസ് സമയം ആക്സ് ബി ലളിതമായി കാരണം ആക്സ് ബി ഇ അതിനാൽ T എന്നത് eT ആണ് അതിനാൽ എനിക്ക് e1 e2 e3T നമ്പറുകളുണ്ടെങ്കിൽ e1 e2 e3 കൊണ്ട് ഗുണിച്ചാൽ ഇത് e12 e22 e32 ലേക്ക് നയിക്കും ഇത് ഇവിടെ ഈ അവകാശത്തിന് തുല്യമാണ് അതിനാൽ ഇത് കുറയ്ക്കുന്നതിന് Ax - b T Ax - b b TAG1 കുറയ്ക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഒപ്റ്റിമൈസേഷൻ പ്രശ്നം Ax - b T Ax - b b TAG1 കുറയ്ക്കുന്നു ചില ബീജഗണിത കൃത്രിമത്വത്തിന് ശേഷം ഈ ലക്ഷ്യം പരിഹാരത്തിന്റെ പ്രവർത്തനമായി നമുക്ക് എഴുതാം f ഈ ഒപ്റ്റിമൈസേഷൻ പ്രശ്നം ഒരു പ്രശ്നമായി മാറുന്നുവെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു അവിടെ ലക്ഷ്യം x ന്റെ പ്രവർത്തനമാണ് ഈ ഒപ്റ്റിമൈസേഷൻ പ്രശ്നം പരിഹരിക്കുന്നത് x നുള്ള പരിഹാരത്തിന് കാരണമാകും അതാണ് ഞങ്ങൾ പോകുന്നത് അതിനാൽ ഈ ഒപ്റ്റിമൈസേഷൻ പ്രശ്നം അലങ്കരിക്കാനുള്ള പരിഹാരം നേടുന്നതിനുള്ള മാർഗം f x TAG1 x മായി വേർതിരിച്ച് 0 ആയി സജ്ജമാക്കുക എന്നതാണ് അതിനാൽ f വേർതിരിക്കുകയും ഇനിപ്പറയുന്ന സമവാക്യത്തിലെ 0 ഫലങ്ങളിലേക്ക് ഡിഫറൻഷ്യൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇത് ഈ സമവാക്യത്തിലേക്ക് ലളിതമാക്കാൻ കഴിയും അവിടെ ഒരു തവണ x AT b ആണ് ഈ സമവാക്യം പരിഹരിക്കുന്നതിന് എല്ലാ നിരകളും രേഖീയമായി സ്വതന്ത്രമാണെന്ന് ഞങ്ങൾ അനുമാനിക്കും ഇത് ഈ മാട്രിക്സിന്റെ വിപരീതം എടുക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നു തുടർന്ന് നമുക്ക് ഒരു പരിഹാരം x തുല്യമായ 1 AT b ഉപയോഗിച്ച് വരാം ഈ പരിഹാരം x എല്ലാ സമവാക്യങ്ങളും തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിലും സമവാക്യങ്ങളിലെ പിശകുകൾ കൂട്ടായി കുറയ്ക്കുന്നുവെന്ന് ഈ പരിഹാരം ഉറപ്പാക്കും അതിനാൽ കേസ് 2 നുള്ള ഒപ്റ്റിമൈസേഷൻ കാഴ് ചയാണിത് അവിടെ സമവാക്യങ്ങളുടെ എണ്ണം വേരിയബിളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ എം n നേക്കാൾ വലുതാണ് ഈ സമയത്ത് ഞങ്ങൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ പരിഹാരം ലഭിക്കുന്നുവെന്നും ഈ സമവാക്യങ്ങളിൽ ചിലത് തൃപ്തികരമാണോ അല്ലയോ എന്നതിനെക്കുറിച്ചും കേസ് 2 ൽ എന്ത് സംഭവിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതിന് ഒരു ഉദാഹരണം എടുക്കുക അതിനുശേഷം ഞാൻ കേസ് 3 ലേക്ക് നീങ്ങുകയും അത്തരം സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒപ്റ്റിമൈസേഷൻ കാഴ്ചപ്പാട് കാണിക്കുകയും ചെയ്യും അവിടെ വേരിയബിളുകളുടെ എണ്ണം സമവാക്യങ്ങളുടെ എണ്ണത്തേക്കാൾ വലുതായിത്തീരുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഇതെല്ലാം എങ്ങനെ കപട വിപരീത സങ്കൽപ്പത്തിലൂടെ മനോഹരമായ ഒരു പരിഹാരമായി സംയോജിപ്പിക്കാമെന്ന് ഞാൻ കാണിക്കും